മുമ്പത്തെ പ്രഭാഷണത്തിൽ ഡാറ്റയുടെ വിശകലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് IIoT സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ഡാറ്റ നോക്കി സവിശേഷതകളും അതിനുശേഷം ഞങ്ങൾ വ്യത്യസ്ത ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി അതനുസരിച്ചുള്ള വ്യത്യസ്ത നിർദ്ദേശങ്ങൾ ഇതിനായി ഫലപ്രദമായ പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും പരിശീലിക്കുകയും ചെയ്യുക അതിനാൽ നമുക്ക് കുറച്ച് കൂടുതൽ പരിഹാരങ്ങൾ നോക്കാം അവയിൽ ചിലത് ഞങ്ങൾ കടന്നുപോയി പക്ഷേ നമുക്ക് കുറച്ച് കൂടുതൽ പരിഹാരങ്ങൾ നോക്കാം ഈ പ്രോസസ്സിംഗ് ഘടകം എങ്ങനെ മാറുന്നുവെന്ന് കാണുക നിർദ്ദേശിക്കപ്പെടുന്ന ഈ വ്യത്യസ്ത പരിഹാരങ്ങളിൽ എല്ലാം പ്രധാനമാണ് ഇത് അതിനാൽ ഫാംബീറ്റ്സ് മറ്റുള്ളവരും നിർദ്ദേശിച്ച പരിഹാരം അതിനാൽ അടിസ്ഥാനപരമായി ഈ പ്രത്യേക കൃതി ഡാറ്റാ ഡ്രൈവഡ് ആർക്കിടെക്ചറിന്റെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു കൃത്യമായ കൃഷി വ്യത്യസ്ത കാർഷിക പ്രശ്നങ്ങൾക്ക് കൃത്യമായ തീരുമാനമെടുക്കൽ എങ്ങനെ ചെയ്യാമെന്ന് വ്യത്യസ്ത സെൻസറുകളുടെയും സ്വയംഭരണ സംവിധാനങ്ങളുടെയും ഉപയോഗത്തിലൂടെ കൃത്യമായ കൃഷി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക വർക്ക് ഫാംബീറ്റ്സിൽ അവർ വ്യത്യസ്ത സെൻസറുകളുടെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു മണ്ണ് സെൻസറുകൾ കൊണ്ടുവരുന്നു ഇത് കാർഷിക ഫാമുകളിൽ വിന്യാസത്തിനായി ഉപയോഗിക്കാനാകും അതോടൊപ്പം ഡാറ്റ പ്രോസസ് ചെയ്യുന്നതും കഴിയുന്നത്ര വേഗം ഡാറ്റ ശേഖരിക്കുകയും ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും അവസാനം കൂടുതൽ ഉപയോഗത്തിനായി ഉപയോക്താവിന് തിരികെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഈ ഫാംബീറ്റ്സ് വാസ്തുവിദ്യയാണ് അവർ വസിഷ്ഠനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സംസാരിച്ചത് മണ്ണിന്റെ സെൻസറുകൾ ക്യാമറകൾ UAV കൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത സെൻസറുകളാണ് നിങ്ങൾക്ക് ഏറ്റവും താഴെയായി കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് മറ്റ് സെൻസറുകളെക്കുറിച്ച് സംസാരിക്കാം ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ബേസ് സ്റ്റേഷൻ ഗേറ്റ്വേയും മറ്റും ഉണ്ട് ഈ വ്യത്യസ്ത ഡാറ്റകളിൽ നിന്ന് അടിസ്ഥാനപരമായി ശേഖരിക്കുന്ന ഈ ഡാറ്റകളെല്ലാം ഈ പ്രത്യേക നെറ്റ്വർക്ക് ശ്രേണിയിലൂടെ കടന്നുപോകും കൂടാതെ ക്ലൌഡിലേക്കും ഈ വ്യത്യസ്തമായ വിശകലനങ്ങൾ നടത്തുകയും വ്യത്യസ്ത ആപ്പുകൾ വഴിയോ വെബ്സൈറ്റുകൾ വഴിയോ ഈ ഡാറ്റ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാൻ പോകുകയും ചെയ്യും അതിനാൽ ഈ പ്രത്യേക വാസ്തുവിദ്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മൾ ഈ മേഘ പ്രതലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ കൃത്യതയുള്ള കൃഷി കൃത്യതയുള്ള കാർഷികത്തെക്കുറിച്ച് സംസാരിക്കുന്നു കഴിയുന്നത്ര വേഗത്തിൽ ശേഖരിക്കുന്ന ഡാറ്റയിൽ നിന്ന് അർത്ഥവത്തായ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു ക്ലൌഡ് അധിഷ്ഠിത വാസ്തുവിദ്യയുടെ രൂപത്തിൽ സാധാരണയായി ഒരു പ്രോസസ്സിംഗ് എഞ്ചിൻ ഉപയോഗിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള കാര്യക്ഷമമായ ഫലപ്രദമായ സംവിധാനത്തിനായി ക്ലൌഡ് അധിഷ്ഠിത ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഇത് നടപ്പിലാക്കുന്നു ഈ ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിച്ച് പ്രോസസ്സിംഗ് ഭാഗവും അനലിറ്റിക്സ് ഭാഗവും നടപ്പിലാക്കുന്നു അതിനാൽ ഈ വാസ്തുവിദ്യയുടെ ഈ പ്രത്യേക ഘടകത്തിലാണ് ഈ വിശകലനം നടത്തുന്നത് അടുത്തതായി കൃഷിയുടെ മേഖലയിൽ മറ്റൊരു ജോലി വീണ്ടും വരുന്നു അതിനാൽ SWAMP ഒരു സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഇവിടെ അടിസ്ഥാനപരമായി അവർ ജലസേചന മാനേജ്മെന്റിനെക്കുറിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വ്യത്യസ്ത തരം അടിസ്ഥാനമാക്കിയുള്ള ജലസേചന മാനേജ്മെന്റ് വിളകൾ കാലാവസ്ഥ വിവിധ പ്രാദേശിക വ്യതിയാനങ്ങൾ തുടങ്ങിയവ വിവിധ തരം സെൻസറുകളുടെ സഹായത്തോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മറ്റും പലതരം ഡാറ്റകൾ വീണ്ടും ശേഖരിക്കും ഈ ഡാറ്റ വിശകലനം ചെയ്യുകയും വ്യത്യസ്ത സേവനങ്ങൾ അന്തിമ ഉപയോക്താക്കൾക്ക് ആവർത്തിച്ചുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പോകുകയും ചെയ്യുന്നു ഇത് വെർച്വൽ എന്റിറ്റികളുടെ സംഭരണവും അനലിറ്റിക്സും സംവദിക്കും ജലനിർമ്മാണത്തിനും വിതരണത്തിനും ഇഷ്ടാനുസൃതമാക്കാവുന്ന സേവനവും കസ്റ്റം ആവശ്യകതയ്ക്കുള്ള പ്രത്യേക സേവനവും വ്യത്യസ്ത വാസ്തുവിദ്യയ്ക്കുള്ള പിന്തുണയും പോലുള്ള മറ്റ് സേവനങ്ങൾ അതിനാൽ കാമിയൻസ്കി തുടങ്ങിയവരുടെ ഈ പ്രത്യേക കൃതി വളരെ സമീപകാലത്തെ ജോലിയിൽ സംസാരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളാണ് ഇവ ഇത് SWAMP ആർക്കിടെക്ചറിന്റെ ഭാഗമാണ് അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ കൃത്യതയുള്ള കൃഷിക്കുള്ള പ്രോസസ്സിംഗും അനലിറ്റിക്സും അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത കൃതികളിലൂടെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നു അതിനാൽ ഇത് SWAMP വാസ്തുവിദ്യയാണ് ഈ വാസ്തുവിദ്യയിൽ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ അതിനാൽ ജലവിതരണത്തെക്കുറിച്ച് SWAMP കാർഷിക പരിശീലന കാലാവസ്ഥാ വിവര നിലയുമായി സംവദിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങളാണ് ഇവ ജലസംഭരണ ജലവിതരണ ശൃംഖലയിൽ നിന്നുള്ള ഡാറ്റയെക്കുറിച്ചുള്ള ഡാറ്റ അവരുടെ ഡാറ്റ എല്ലാം SWAMP ൽ എടുക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു അതിനർത്ഥം തീരുമാനങ്ങൾ അർത്ഥമാക്കുന്നത് അനലിറ്റിക്സ് പ്രോസസ്സിംഗ് എന്നിവയുടെ അനലിറ്റിക്സ് ഉപയോഗം ഇവ വ്യത്യസ്ത പ്രവചനങ്ങൾ നടത്താൻ സഹായിക്കും എന്നാണ് അതിനാൽ കാർഷിക അധിഷ്ഠിത ജലസേചനവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ എപ്പോൾ നനയ്ക്കണം ഏത് ജലസേചനത്തിന് ഏത് ഉപകരണങ്ങൾ മികച്ചതായിരിക്കും തുടങ്ങിയവ അതിനാൽ കൃത്യതയുള്ള കൃഷിക്കായി SWAMP യുടെയും സമാനമായ മറ്റ് വാസ്തുവിദ്യകളുടെയും സഹായത്തോടെ ഇവയെല്ലാം ചെയ്യാൻ കഴിയും എആർ ഡ്രോണുകൾ റിസർച്ച് ലാബും ഞങ്ങൾ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ഐഐടി ഖരഗ്പൂരിലെ കാർഷിക വകുപ്പിലെ സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ കൃത്യമായ കൃഷിക്ക് വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ട് എന്നാൽ കാംബ്രയുടെയും മറ്റുള്ളവരുടെയും ഈ പ്രത്യേക കൃതി നോക്കാം ഇത് 2018 ൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ കൃതിയാണ് അതിനർത്ഥം വളരെ അടുത്തിടെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നാണ് ഇവിടെ അടിസ്ഥാനപരമായി അവർ കളകൾക്ക് കൃത്യമായ വളം തളിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കൂടാതെ ഇത് വളരെ പ്രധാനപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രശ്നമാണ് കാരണം നിങ്ങൾക്ക് കളനാശിനികൾ കൃത്യമായി തളിക്കേണ്ടതും കളകൾ മാത്രം തളിക്കുന്നതും മറ്റ് സ്ഥലങ്ങൾ ചുരുങ്ങിയത് ബാധിക്കുന്നതുമായ വിധത്തിൽ നിങ്ങൾ കൃത്യമായി കളനാശിനികൾ തളിക്കണം എന്നതാണ് പ്രശ്നം അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രശ്നമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സങ്കീർണ്ണമായ ഇവന്റ് പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഈ പ്രത്യേക പരിഹാരത്തിൽ അവർ സംസാരിക്കുന്നത് എആർ ഡ്രോണുകൾ ലാപ്ടോപ്പുകൾ ട്രാക്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്പ്രെയർ വീഡിയോ പ്രോസസ്സിംഗ് മൊഡ്യൂളുകൾ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോ പ്രോസസ്സിംഗ് മൊഡ്യൂൾ അടിസ്ഥാനപരമായി കളകളിൽ കളനാശിനികൾ തളിക്കാൻ സഹായിക്കുന്നു കൂടാതെ ട്രാക്ടറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിസിഷൻ സ്പ്രേയറിന്റെ ഉപയോഗവും ഈ പ്രത്യേക വീഡിയോ പ്രോസസ്സിംഗ് മൊഡ്യൂൾ കണ്ടെത്തിയ സ്ഥലങ്ങൾക്കനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിനാൽ യഥാർത്ഥത്തിൽ ഈ പ്രത്യേക പരിഹാരം അവർ തീരുമാനമെടുക്കലിനും വിശകലനത്തിനും കമ്പ്യൂട്ടർ കാഴ്ച സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് മൊത്തത്തിലുള്ള വാസ്തുവിദ്യയാണ് ചിത്രപരമായി ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനാൽ ഈ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത ഇടപെടലുകൾ ഞങ്ങൾക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീഡിയോ പ്രോസസ്സിംഗ് മോഡലാണിത് അതിനാൽ ഡ്രോണുകൾ വീഡിയോ പ്രോസസ്സിംഗ് മൊഡ്യൂൾ സ്പ്രേയറുകളുള്ള ട്രാക്ടർ കാർഷിക മേഖല ഈ വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിലുള്ള ഡാറ്റയുടെ മൊത്തത്തിലുള്ള ഒഴുക്ക് എന്നിവ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഡാറ്റയും ഡാറ്റയുടെ പ്രോസസ്സിംഗും വളരെ പ്രധാനമാണ് അനുയോജ്യമായ വിശകലനങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ വിശകലനങ്ങൾ വീണ്ടും പ്രവചനാത്മകമാകാം അല്ലെങ്കിൽ കുറിപ്പടി അല്ലെങ്കിൽ വിവരണാത്മകമാകാം അതിനാൽ ഈ വാസ്തുവിദ്യ അടിസ്ഥാനപരമായി പല വിശകലന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നില്ല എന്നാൽ ഈ വ്യത്യസ്ത തരം വിശകലനങ്ങളെല്ലാം അവയുടെ പരിഹാരം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ നമുക്ക് വിപുലീകരിക്കാവുന്ന ഒരു പൊതു വാസ്തുവിദ്യ നൽകുന്നു കാർഷിക ആപ്ലിക്കേഷൻ ഡൊമെയ്നിൽ അതിനാൽ മുന്തിരിത്തോട്ടങ്ങളിലെ വെല്ലുവിളി വ്യത്യസ്ത കാലാവസ്ഥയുള്ള മണ്ണിനും വ്യത്യസ്ത സാഹചര്യങ്ങൾക്കും ആവശ്യമായ മുന്തിരി പലതരം ഉണ്ട് എന്നതാണ് അതിനാൽ മുന്തിരിത്തോട്ടങ്ങളുടെ തത്സമയ സംവേദനവും നിരീക്ഷണവും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ വിളവ് മുന്തിരിയുടെ ഗുണനിലവാരം ജലത്തിന്റെ ഒപ്റ്റിമൽ ഉപയോഗം എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതേസമയം ചെടികളുടെ രോഗങ്ങൾ കുറയ്ക്കുകയും അവയെ നിയന്ത്രിക്കുകയും തത്ഫലമായി പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി രാസവളങ്ങൾ ഉപയോഗിക്കുകയും അവയെ തളിക്കുകയും ചെയ്യുക അതിനാൽ ഇത് മുന്തിരിത്തോട്ടത്തിന്റെ ആരോഗ്യ നിരീക്ഷണ പരിഹാരമാണ് ഈ പ്രത്യേക ജോലിയുടെ അനുബന്ധ ഉറവിടവും ഇവിടെ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രത്യേക സാഹിത്യത്തിലൂടെ പോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇതാണ് ഈ മൊത്തത്തിലുള്ള വാസ്തുവിദ്യ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ ക്ലൌഡും ഗണിത എഞ്ചിനും അടങ്ങുന്ന ഈ പ്രോസസ്സിംഗ് എഞ്ചിനും ഇതാണ് അതിനാൽ ഈ പ്രത്യേക സൃഷ്ടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ വിഷ്വലൈസേഷൻ ഘടകവുമായുള്ള ഇടപെടലും അലേർട്ടുകളുടെ ജനറേഷനും ഇതാണ് മൈക്രോ സ്ട്രീം വഴി ഈ മുന്തിരിത്തോട്ടത്തിലെ ആരോഗ്യ നിരീക്ഷണ പരിഹാരത്തിൽ പിന്തുണയ്ക്കുന്നത് സ്മാർട്ട് സാന്റാൻഡറാണ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതാണ് ഡിസൈൻ പരിഗണനകൾ വ്യത്യസ്ത ഐഒടി നോഡുകൾ സെൻസർ പ്രവർത്തനക്ഷമമാക്കിയ ഐഒടി നോഡുകൾ റിപ്പീറ്ററുകൾ ഐഒടി ഗേറ്റ്വേകൾ എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാസ്തുവിദ്യ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ഇതിന് വ്യത്യസ്ത വാസ്തുവിദ്യാ പാളികളുണ്ട് പ്രാമാണീകരണം അതിനാൽ ഈ ഉപ സംവിധാനങ്ങളിൽ ഓരോന്നിനും അവരുടേതായ വ്യത്യസ്ത പ്രവർത്തനങ്ങളുണ്ട് ഒരു പ്രത്യേക പരിഹാരത്തിൽ എത്തിച്ചേരാൻ ഈ വ്യത്യസ്ത ഘടകങ്ങളെല്ലാം ഉൾപ്പെടുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നു അതിനാൽ ഏറ്റവും താഴെയായി IoT നോഡ് ഉണ്ട് തുടർന്ന് ഗേറ്റ്വേയും ടെസ്റ്റ്ബെഡ് സെർവറും ഈ പ്രത്യേക വാസ്തുവിദ്യയിൽ പിന്തുണയ്ക്കാൻ പോകുന്ന ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അനുബന്ധമായ വ്യത്യസ്ത ഘടകങ്ങളും ഈ പ്രത്യേക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഐറോബോട്ട് എന്നാൽ ബുദ്ധി ബുദ്ധി എന്നാൽ കണക്കുകൂട്ടൽ കണക്കുകൂട്ടൽ എന്നാൽ ധാരാളം പ്രോസസ്സിംഗ് പോലെ നമുക്ക് ധാരാളം പ്രോസസ്സിംഗ് ചെയ്യേണ്ടി വരും നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസിംഗിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അത് അടിസ്ഥാനപരമായി കണക്കുകൂട്ടൽ തീവ്രമാണ് അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വിശകലനം വളരെ പ്രധാനമാണ് അതിനാൽ ഉപയോക്താക്കളുടെ വികാരങ്ങളും മറ്റ് ഘടകങ്ങളും മനസിലാക്കുന്നതിനെ അടിസ്ഥാനമാക്കി കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഉപയോക്താക്കളുടെ വികാരങ്ങൾ സംവേദനം ചെയ്യുന്നതിനുള്ള കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ടെർമിനൽ പോലുള്ള വ്യത്യസ്ത ഘടകങ്ങൾ ഉപയോഗിക്കുന്ന ജോലിയാണ് ഇത് സിസ്റ്റം മാനേജ്മെന്റ് ഫാക്ടറിയുടെ വ്യത്യസ്ത ഘടകങ്ങളാണ് ഈ ഓരോ ഘടകങ്ങളുടെയും വ്യക്തിഗത വിവരണങ്ങളിലൂടെ ഞാൻ പോകുന്നില്ല ഇത് നിങ്ങൾക്ക് ഇതിനകം നൽകിയിട്ടുണ്ട് ഇത് വളരെ സാമ്യമുള്ളതാണ് വാസ്തവത്തിൽ ഈ വ്യത്യസ്ത തരം വാസ്തുവിദ്യകളെല്ലാം അവ ആശയപരമായി വളരെ സമാനമാണ് ഒരേയൊരു കാര്യം വിവിധ ഘടകങ്ങളുടെ വ്യത്യസ്ത ഉപയോഗത്തിലൂടെയും മറ്റും നടപ്പിലാക്കിയ ചില ആപ്ലിക്കേഷൻ നിർദ്ദിഷ്ട പ്രശ്ന ആവശ്യകതകൾ ഉണ്ട് എന്നതാണ് അതിനാൽ ഇവയിൽ ഓരോന്നിലൂടെയും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കാം ഇത് ഈ ഐറോബോട്ട് എന്നിവയുടെ ഈ പാളി വരുന്നു ഇവയെല്ലാം ഈ ക്ലൌഡ് അധിഷ്ഠിത കോഗ്നിറ്റീവ് എഞ്ചിനുമായി സംവദിക്കുന്നു അതിനാൽ ഈ വ്യത്യസ്ത വാസ്തുവിദ്യകൾക്ക് വ്യത്യസ്ത പരിഹാരങ്ങൾ നമുക്ക് ആവർത്തിച്ച് കാണാൻ കഴിയും ഈ ക്ലൌഡ് അധിഷ്ഠിത കോഗ്നിറ്റീവ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു 2015 ൽ ഡോണോവൻ മുതലായവയാണ് അതിനാൽ ഇവയെല്ലാം നിർമ്മാണ മേഖലയിലെ വ്യത്യസ്ത വെല്ലുവിളികളാണ് അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്മാർട്ട് നിർമ്മാണ സംവിധാനത്തിന്റെ സഹായത്തോടെ ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ സ്മാർട്ട് നിർമ്മാണ സംവിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട് ഡാറ്റയുടെയും സാന്ദർഭിക വിവരങ്ങളുടെയും ഏകീകരണത്തിന്റെ സംയോജന ഘടകമാണ് ഒന്ന് രണ്ടാമത്തേത് ഡാറ്റയുടെ സമന്വയവും വിശകലനവും കൈകാര്യം ചെയ്യുന്ന ഘടകമാണ് മൂന്നാമത്തെ ഘടകം പ്രക്രിയയിലെ ഉൽപാദനത്തെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ പ്രക്രിയ ഘടകവും ഉൽപാദനവും വ്യത്യസ്തമായ പുതിയ ഉൾക്കാഴ്ചകൾ നേടുന്നതിനും അതിനനുസരിച്ച് വ്യത്യസ്ത പ്രവചനങ്ങൾ നടത്തുന്നതിനും ഭാവിയിൽ വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങൾക്ക് ഇടയാക്കുന്ന അറിവിന്റെയും ബുദ്ധിയുടെയും ഉപയോഗത്തിലൂടെയാണ് നവീകരണം വരുന്നത് ഇതാണ് സ്മാർട്ട് മാനുഫാക്ചറിംഗ് ആർക്കിടെക്ചറിലുള്ള വലിയ ഡാറ്റ അതിനാൽ ഞങ്ങൾ സംസാരിച്ച ഈ വ്യത്യസ്ത ഘടകങ്ങളും മറ്റ് ഘടകങ്ങളും അധികമായി ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ വീണ്ടും ഞാൻ കടന്നുപോകാൻ പോകുന്നില്ല പക്ഷേ ഇത് തികച്ചും സ്വയം വിശദീകരിക്കുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അനുബന്ധ സാഹിത്യത്തിലൂടെ നിങ്ങൾക്ക് പോകാം ഉറവിടം ഇവിടെ നൽകിയിരിക്കുന്നു എന്നാൽ ഇവിടെ നമുക്ക് വീണ്ടും കാണാനാകുന്നതുപോലെ ഇത് വീണ്ടും ഡാറ്റ തീവ്രമാണ് അറിവ് തീവ്രമാണ് വിശകലന തീവ്രമാണ് മുതലായവ കൂടാതെ ഇത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സിംഗും ക്ലൌഡിലാണ് ചെയ്യുന്നത് സ്മാർട്ട് വെയർഹൌസിംഗ് ഇവിടെ രചയിതാക്കൾ സംസാരിക്കുന്നത് ജബ്ബാറിനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സംസാരിക്കുന്നത് വിശ്രമത്തെ അടിസ്ഥാനമാക്കിയുള്ള ചട്ടക്കൂടിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഈ ചട്ടക്കൂട് ഡാറ്റ ശേഖരണ മൊഡ്യൂൾ ശേഖരിക്കുന്നു അത് RFID ടാഗുകളും സെൻസറുകളും ഉപയോഗിച്ച് വ്യത്യസ്ത വസ്തുക്കളെ സവിശേഷമായി തിരിച്ചറിയുന്നു വിവരങ്ങൾ സംഭരിക്കുന്നതിനും ആധികാരികതയ്ക്കും സുരക്ഷിത ആക്സസിനും ഒരു ഡാറ്റാബേസ് ഘടകമുണ്ട് ഡാറ്റാ തീരുമാനമെടുക്കലിന്റെയും ഡാറ്റ പ്രോസസ്സിംഗിന്റെയും ഓർഗനൈസേഷൻ ഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മൊഡ്യൂൾ ഉണ്ട് ഈ സ്മാർട്ട് വെയർഹൌസിംഗ് ആർക്കിടെക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെയും നമുക്ക് കാണാനാകുന്നതുപോലെ ഈ സ്മാർട്ട് ഗേറ്റ്വേ ഉപയോഗിക്കുന്നു വെബ് സെർവർ ഒരു സേവന ഘടകം ഇവയെല്ലാം വ്യത്യസ്ത തരം പ്രോസസ്സിംഗും അനലിറ്റിക്സും ചെയ്യാൻ പോകുന്നു അതിനാൽ ഏത് വിശകലനമാണ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാവുന്ന ഒരു ചോദ്യമായിരിക്കാം അപ്പോൾ ഏത് തരം അനലിറ്റിക്സ് അതിനാൽ മുമ്പത്തെ പ്രഭാഷണങ്ങളിലൊന്നിൽ ഞങ്ങൾ സംസാരിച്ച വ്യത്യസ്ത തരം വിശകലനങ്ങളുടെയും AI സാങ്കേതികതകളുടെയും അടിസ്ഥാനപരമായി നമുക്ക് സഹായം ലഭിക്കുന്നത് ഇവിടെയാണ് അതിനാൽ അടിസ്ഥാനപരമായി നടപ്പിലാക്കുന്ന ഈ പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന തരം വിശകലനങ്ങളെക്കുറിച്ച് തുറന്നിടുന്നു പ്രവചനാത്മകവും നിർദ്ദേശിക്കപ്പെടുന്നതും വിവരണാത്മകവുമായ ഏതെങ്കിലും വിശകലനങ്ങളിൽ ഏതെങ്കിലും അനലിറ്റിക്സ് ഈ മിക്കവാറും ആർക്കിടെക്ചറുകളിൽ നടപ്പിലാക്കാൻ കഴിയും ഉപയോഗിക്കാവുന്ന നിർദ്ദിഷ്ട പരിഹാരങ്ങൾ തുറന്നിരിക്കുന്നു എന്നാൽ അവ്യക്തമായ യുക്തി ന്യൂറൽ നെറ്റ്വർക്കുകൾ മറ്റും പോലുള്ള വ്യത്യസ്ത പ്രവചന വിദ്യകൾ സ്വീകരിച്ച ഡാറ്റയെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക പ്രശ്നത്തിന് അനുയോജ്യമായ പരിഹാരം കണ്ടെത്താനും ഉപയോഗിക്കാം അതുകൊണ്ട് ഇതുപോലുള്ള മറ്റ് പരിഹാരങ്ങൾ ഉണ്ട് താവോ 2014 ൽ ഉപഭോക്താക്കളും ഓപ്പറേറ്റർമാരും ദാതാക്കൾ ഈ വ്യത്യസ്ത എന്റിറ്റികളുടെ ഓരോ അർത്ഥവും ഞാൻ പരിശോധിക്കേണ്ടതില്ല കാരണം ഇത് തികച്ചും സ്വയം വിശദീകരിക്കുന്നതാണ് അവർ വിവിധ ഘട്ടങ്ങളിലുള്ള വർക്ക്ഫ്ലോയെക്കുറിച്ച് സംസാരിക്കുന്നു സേവന ഓഫറുകളുടെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ആദ്യ ഘട്ടം രണ്ടാം ഘട്ടം സേവനങ്ങളുടെ വിർച്ച്വലൈസേഷൻ ആപ്ലിക്കേഷൻ ലെയർ താഴെയുള്ള സപ്പോർട്ട് ലെയർ തുടങ്ങിയ പാളികളും ഉണ്ട് അതിനർത്ഥം അറിവ് ക്ലൌഡ് സുരക്ഷ ഇന്റർനെറ്റ് അങ്ങനെ ഈ വ്യത്യസ്ത പാളികളെല്ലാം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് മൊത്തത്തിലുള്ള സംയോജിത വാസ്തുവിദ്യയാണ് അതിനാൽ ഞങ്ങൾ ഈ വ്യത്യസ്ത പാളികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ആപ്ലിക്കേഷൻ ലെയർ സർവീസ് ലെയർ ഐഒടി ലെയർ താഴെയുള്ള സപ്പോർട്ട് ലെയർ ഇത് ആപ്ലിക്കേഷൻ സേവനത്തിന്റെയും ഐഒടിയുടെയും എല്ലാ ലെയറുകളെയും വെട്ടിക്കുറയ്ക്കുന്നു വിജ്ഞാന പാളി ക്ലൌഡ് സുരക്ഷാ പാളി വിശാലമായ ഇന്റർനെറ്റ് പാളി അതിനാൽ ഈ പാളികളിൽ ഓരോന്നും വിജ്ഞാന പാളി പ്രത്യേകിച്ച് ഡാറ്റ തീവ്രമാണ് ഈ പ്രത്യേക പാളിയിൽ വിന്യസിച്ചിരിക്കുന്ന ഈ വ്യത്യസ്ത IoT ഉപകരണങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വ്യത്യസ്ത ഡാറ്റയിൽ നിന്ന് അറിവ് നേടുന്നതിന് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വിപുലമായ അനലിറ്റിക്സ് ഉണ്ടായിരിക്കണം അതിനാൽ ഇതുപോലുള്ള വ്യത്യസ്ത പരിഹാരങ്ങളുണ്ട് അതിനാൽ ഞാൻ ഇപ്പോൾ വിശദീകരിച്ച ചിലത് ഇവയാണ് അനുബന്ധ റഫറൻസുകൾ നിങ്ങൾക്ക് ഇവിടെ അവസാനം നൽകുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ളവയിൽ ഏതാണ് നിങ്ങൾക്ക് ബാധകമാകുന്നത് നിങ്ങൾക്ക് കൃഷിയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാൻ ചർച്ച ചെയ്തവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അനുബന്ധ സാഹിത്യത്തിലൂടെ പോകാം നിർമ്മാണം നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ള ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അനുബന്ധ സാഹിത്യത്തിലൂടെ പോകാം സ്മാർട്ട് മാനുഫാക്ചറിംഗ് സൊല്യൂഷനുകളെക്കുറിച്ചും തുടങ്ങിയവയും നമുക്ക് സ്ഥാപിക്കാനാകും എന്നാൽ അതിനുശേഷം ഈ വ്യത്യസ്ത പാളികളിലൂടെ സെൻസർ ലെയറിൽ നിന്ന് കണക്റ്റിവിറ്റി ലെയറിലൂടെ വരുന്ന ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം വരുന്ന ഡാറ്റ വേണ്ടത്ര പ്രോസസ് ചെയ്യേണ്ടതുണ്ട് ഈ പ്രത്യേക പ്രോസസ്സിംഗിനായി വ്യത്യസ്ത പരിഹാര വാസ്തുവിദ്യകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അത് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രത്യേക പരിഹാര വാസ്തുവിദ്യയെക്കുറിച്ച് ഒരു സൂചന നൽകും നിങ്ങളുടെ കൈയിലുള്ള നിങ്ങളുടെ നിർദ്ദിഷ്ട പ്രശ്നത്തിനായി അത് കൊണ്ടുവരും കൂടാതെ വിവിധ തരം അനലിറ്റിക്സ് പ്രോസസ്സിംഗ് എന്നാൽ അനലിറ്റിക്സ് എന്നാണ് അതിനാൽ വ്യത്യസ്ത കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കുകൾ വ്യത്യസ്ത ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ ഗെയിം തിയറി ന്യൂറൽ നെറ്റ്വർക്കുകൾ ജനിതക അൽഗോരിതങ്ങൾ അല്ലെങ്കിൽ അവ്യക്തമായ യുക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തും നടപ്പിലാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്താണ് അതിനാൽ അവ നടപ്പിലാക്കേണ്ടിവരും തുടർന്ന് കേവലം നടപ്പാക്കൽ മാത്രം പോരാ ഡാറ്റയിൽ നിന്ന് നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ അമൂർത്തമായ തലത്തിൽ അറിവ് ശേഖരിക്കുക ആ വിവരവും അറിവും ഉപയോഗപ്രദമാകും അതിനാൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ പ്രോസസ്സിംഗ് ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു